അതിനാൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് II എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് സ്വാഗതം ഇത് ഫോറിയർ സീരീസിന്റെ കോൺവെർജൻസിനെ കുറിച്ചുള്ള നമ്പർ 35 ആണ് അതിനാൽ നമ്മൾ ഇതിനകം ഫൊറിയർ സീരീസിന്റെ കോൺവെർജൻസിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് അതിന്റെ തുടർച്ചയാണ് അവിടെ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള കോൺവെർജൻസുകൾ പരിഗണിക്കും അതിനാൽ അടിസ്ഥാനപരമായി കൺവെർജൻസിന്റെ വ്യത്യസ്ത ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും പ്രധാനമായും നമ്മൾ സംസാരിക്കുന്നത് പോയിന്റവൈസ് കൺവെർജൻസ്pointwise convergence യൂണിഫോം കൺവേർജൻസ് കൺവൻജൻസ് എന്നിവയെകുറിച്ചാണ് ഈ അർത്ഥത്തിൽ ഇവ മൂന്നും തമ്മിലുള്ള ബന്ധവും പ്രകടമാക്കും അപ്പോൾ ഫൊറിയർ സീരീസുമായി ബന്ധപ്പെട്ട് ഈ വ്യത്യസ്തമായ നോഷൻസ് ആശയത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരുമെന്നും നോക്കുന്നു അതിനാൽ ഓർമിക്കുക മുൻ പ്രഭാഷണത്തിൽ നമ്മൾ ഒരു കൺവെർജൻസ് തിയറി ചർച്ച ചെയ്തു അതാണ് ഡിറിച്ലെറ്റ് സിദ്ധാന്തം മതിയായ വ്യവസ്ഥകൾ പ്രധാനമായും പീസ്വേസ് കണ്ടിന്യൂറ്റിയും വൺ സൈഡെഡ് ഡെറിവേറ്റീവുകളുടെ നിലനിൽപ്പും ആണ് അതിനാൽ ഈ അവസ്ഥ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് 𝑓 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ വൺ സൈഡെഡ് ഡെറിവേറ്റീവുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രധാനമായും ഈ കോഷ്യന്റ് ഈ കോഷ്യന്റിന്റെ പരിധി ഈ കോഷ്യന്റിന്റെ പരിധി എന്നിവ നിലനിൽക്കുന്നു ആ സാഹചര്യത്തിൽ നമ്മൾ ഓരോ x∈ −𝐿 𝐿നും ഫൊറിയർ സീരീസ് കോൺവെർജ് ചെയ്യുന്നു നമ്മൾക്ക് ഈ റിസൾട്ട് ഉണ്ട് ഇവിടെ ഈ സീരീസിന്റെ മൂല്യം ഈ സീരീസിന്റെ ആകെത്തുക ആ ഘട്ടത്തിലെ ഫംഗ്ഷന്റെ ശരാശരി മൂല്യം തുല്യമായിരിക്കും അവിടെ 𝑓𝑥 എന്നത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ xലും 𝑓𝑥− എന്നതിന്റെ ലെഫ്റ്റ ഹാൻഡ് ലിമിറ്റ x ആണ് അതിനാൽ രണ്ട് അവസാന പോയിന്റുകളിലും ഈ സീരീസ് വീണ്ടും ലിമിറ്റുകളുടെ ഈ ശരാശരി മൂല്യത്തിലേക്ക് കോൺവെർജ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഈ പോയിന്റിൽ നമുക്ക് ഈ വാല്യൂ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ xL ന് പകരം ഇത് ലളിതമാക്കും അതിനാൽ അവസാന പോയിന്റുകളിൽ നമുക്ക് സിംപ്ലിഫൈഡ് റിസൾട്ട് ലഭിക്കും അതിനാൽ ഇപ്പോൾ നമ്മൾ കൺവെർജൻസിന്റെ വ്യത്യസ്തമായ ആശയങ്ങൾ തുടരും ഈ മുമ്പത്തെ ലെക്ചറിൽ നമ്മൾ ആദ്യം കണ്ടത് ഓരോ പോയിന്റിനും 𝑥 −𝐿 മുതൽ L വരെയാണ് സീരീസിന്റെ പരിധിയുടെ ശരാശരി മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യുന്ന സീരീസിന്റെ ആകെത്തുകയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു സീക്വൻസ് നിർവ്വചിക്കും കാരണം നമ്മൾ കൺവെർജൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു സീക്വൻസ് വിശദീകരിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ ഭാഗിക തുകകളുടെ ക്രമം ഞങ്ങൾ നിർവ്വചിക്കുന്നു അതായത് ∞ എന്നതിനുപകരം നമ്മൾ പരിമിതമായ നിബന്ധനകൾ എടുക്കും അതിനാൽ സീരിസിലെ ഈ 𝑛 നിബന്ധനകൾ ആദ്യ പദത്തോടൊപ്പം നമ്മൾ ∞ ഉപയോഗിച്ച് മാറ്റി നമുക്ക് ഈ n തുകയെ fn എന്ന് വിളിക്കാം അതിനാൽ n ന്റെ ഓരോ മൂല്യത്തിനും ഈ 𝑓𝑛 ഉള്ളതിനാൽ നമ്മൾ ക്ക് fn ഉണ്ട് അതായത് 𝑓1 𝑓2 𝑓3 കൂടാതെ സ്വാഭാവികമായും 𝑛 യിലേക്ക് അടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന കൺവെർജൻസിനെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നുവരുന്നു അതായത് നമ്മൾ കൃത്യമായി ഫൊറിയർ സീരീസിലാണ് 𝑛 യിലേക്ക് അടുക്കുമ്പോൾ കൂടാതെ നമ്മുടെ ലക്ഷ്യം n ∞യോട് അടുക്കുമ്പോൾ fnന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് ശരി അതിനാൽ ആദ്യത്തേത് നമ്മൾ കോൺവെർജൻസിന്റെ ആദ്യ ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് മീൻ സ്ക്വയർ കോൺവെർജൻസ് ആണ് ഇത് അർത്ഥമാക്കുന്നത് മീൻ സ്ക്വയർ ഇന്റഗ്രൽ ആണ് അതിനാൽ ഇന്റർവെൽ 𝑎 𝑏 ലെ ഫംഗ്ഷന്റെ സീക്വൻസ് ആയിട്ടാണ് 𝑓𝑛𝑥 നെ വിശദീകരിച്ചിരിക്കുന്നത് കൂടാതെ 𝑎 𝑏ൽ വിശദീകരിച്ചിരിക്കുന്ന മറ്റൊരു ഫംഗ്ഷനാണ് 𝑓 മാത്രമല്ല നമ്മൾ പറയുന്നു ഈ സീക്വൻസ് മീൻ സ്ക്വയർ എന്ന അർത്ഥത്തിൽ കോൺവെർജ് ചെയ്യുന്നു മീൻ സ്ക്വയർ എന്ന അർത്ഥത്തിൽ ഈ ഫംഗ്ഷൻ 𝑓 ഇന്റർവെൽ 𝑎 𝑏ൽ ആണെങ്കിൽ ഇനിപ്പറയുന്ന വ്യവസ്ഥ നിലനിൽക്കുന്നു അപ്പോൾ ഇവിടെ ഈ വ്യവസ്ഥ എന്താണ് ഈ രണ്ടിന്റെയും സ്ക്വയറിന്റെ വ്യത്യാസം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അതായത് fx fnx2 𝑎 മുതൽ b വരെ അതിനാൽ യഥാർത്ഥത്തിൽ ഈ വ്യത്യാസത്തിന്റെ സ്ക്വയർ നമ്മൾ 𝑑𝑥 എന്നതിനേക്കാൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 𝑓𝑥ന് ഈ 𝑓𝑛 ന്റെ പരിധി ഉണ്ട് മാത്രമല്ല ഇത് 0 ന് തുല്യമാണെങ്കിൽ ഈ n ∞യോട് അടുക്കുമ്പോൾ അപ്പോൾ ഈ 𝑓𝑛 എന്നത് മീൻ സ്ക്വയർ അർത്ഥത്തിൽ 𝑓 ആയി മാറുന്നു എന്ന് ഞങ്ങൾ പറയുന്നു എന്തുകൊണ്ടാണ് ഇതിനെ ആവറേജ് മീൻ സ്ക്വയർ എന്ന് വിളിക്കുന്നത് കാരണം ഇത് കോൺവെർജൻസിന്റെ വീകെർ വേർഷൻ ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കും നമ്മൾ രണ്ട് തരം കോൺവെർജൻസുകൾ കൂടി പഠിക്കും കാരണം ഇവിടെ ഈ ഇന്റഗ്രലിന്റെ കീഴിൽ ഈ വ്യത്യാസം 0 ലേക്ക് പോകാൻ മാത്രമാണ് നമ്മൾ അനുവദിക്കുന്നത് അതിനാൽ ഈ ഇന്റഗ്രൽ ഉണ്ടാവില്ലെന്ന് നമുക്കറിയാവുന്നതുപോലെ ഉദാഹരണത്തിന് ഇന്റെഗ്രേന്റിന്റെ മൂല്യം ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയ നിരവധി ഡിസ്ക്രീറ്റ് പോയിന്റുകളിൽ അതിനാൽ ആ കേസിൽ ഈ 𝑓𝑥 𝑓𝑛 𝑥 എന്നിവയാണെങ്കിലും അവ വ്യത്യസ്ത പോയിന്റുകളിലോ പരിമിതമായ പല പോയിന്റുകളിലോ വ്യത്യാസപ്പെട്ടിരിക്കാം പക്ഷേ ഇപ്പോഴും ഈ ഇന്റഗ്രേഷൻ 0 ന് തുല്യമായിരിക്കാം ഇത് കോൺവെർജൻസിന്റെ വീകെർ ഫോം ആണ് എന്നിട്ടും നമ്മൾ ഇതിനെ ഒരു കൺവെർജൻസ് എന്ന് നാമകരണം ചെയ്യുന്നു പക്ഷേ സമഗ്രമായ അർത്ഥത്തിൽ നമ്മൾ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത് ഈ ഇന്റഗ്രൽ ആണ് 𝑛 ∞ യോട് അടുക്കുമ്പോൾ അത് 0 ആയി പോകുന്നു ഈ രണ്ട് ഫംഗ്ഷനുകളും പരിമിതമായി പല പോയിന്റുകളിലും വ്യത്യസ്തം ആകുമെന്ന് ഇതിനകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഈ ഇന്റഗ്രൽ മൂല്യം 0 ലേക്ക് പോകാം നമ്മൾ പറയുന്നത് 𝑓𝑛 ന്റെ മീൻ സ്ക്വയറിൽ കൺവെർജ് ചെയ്യുന്നു അതിനാൽ കോൺവെർജന്സിന്റെ മറ്റ് ശക്തമായ പതിപ്പുകളുണ്ട് അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും ഇപ്പോൾ മറ്റൊന്ന് പോയിന്റ് വൈസ് കോൺവർജൻസ് ആണ് ഇത് നമ്മൾ ഡിറിച്ലെറ്റ് സിദ്ധാന്തത്തിൽ ഇതിനകം ചർച്ച ചെയ്ത അതിനാൽ ഓരോ 𝑥 ∈ 𝑎 𝑏 ക്കും ഈ ഇന്റെർവെൽ𝑎 𝑏 ൽ ഈ പോയിന്റ് 𝑓 ആയി എന്ന് നമ്മൾ പറയുന്നു നമുക്ക് ഈ 𝑓𝑛𝑥 ന് ഈ പരിധി f ഉണ്ട് ഇതിനെ നമുക്ക് 𝑛 അല്ലെങ്കിൽ 𝑚 എന്താണേലും പ്രശ്നമില്ല അതിനാൽ 𝑛∞ യോട് അടുക്കുമ്പോൾ 𝑓𝑛𝑥 𝑓𝑥 ന് തുല്യമാകും അതിനർത്ഥം നമ്മൾ ഇവിടെ x ഉറപ്പിക്കുന്നു എന്നാണ് തുടർന്ന് x ന്റെ സീക്വൻസിലെ ഈ 𝑓𝑛𝑥 വീണ്ടും 𝑥 ന്റെ അതേ മൂല്യത്തിന് 𝑓𝑥 ആകും അപ്പോൾ ഇവിടെ ഇത് പോയിന്റ് വൈസ് കോൺവർജൻസ് ആണ് ഇതിനെ പോയിന്റ് വൈസ് കോൺവർജൻസ് എന്നാണ് പറയുന്നത് കാരണം നമ്മൾ ഇവിടെ ഈ പോയിന്റ് ഉറപ്പിക്കുകയാണ് തുടർന്ന് നമ്മൾ ഈ 𝑓𝑛𝑥 നെക്കുറിച്ച് സംസാരിക്കുന്നു ഈ യഥാർത്ഥ സംഖ്യകളുടെ സീക്വൻസ് x ന്റെ സ്ഥിരതയ്ക്കായി യഥാർത്ഥ സംഖ്യകളുടെ 𝑓𝑛𝑥 ന്റെ ഈ സീരീസ് നമ്മുടെ പക്കലുണ്ട് കൂടാതെ ഇത് 𝑓𝑥ലേക്ക് n പോകുന്നത് പോലെ ∞ എന്നതിലേക്ക് പോകുന്നു നമ്മൾ ഇതിനെ ഒരു പോയിന്റ് വൈസ് കൺവെർജൻസ് എന്ന് വിളിക്കുന്നു കൂടാതെ ഇത് മുൻപത്തേതിനേക്കാൾ ശക്തമായ പതിപ്പ് ആണെന്ന് ഇവിടെ പറയുന്നു അതിനാൽ ഇവിടെ നമ്മൾ ചുരുങ്ങിയത് ഓരോ 𝑥 നും വേണ്ടി സംസാരിക്കുന്നു ഒരിക്കൽ നമ്മൾ x ഉറപ്പിച്ചാൽ 𝑓𝑛𝑥 𝑓𝑥 ലേക്ക് കോൺവെർജ് ചെയ്യും നമുക്ക് പോയിന്റ് വൈസ് കോൺവെർജൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത അർത്ഥത്തിൽ മീൻ സ്ക്വയർ കോൺവെർജൻസിനെ തീർച്ചയായും സൂചിപ്പിക്കുന്നു അതിനാൽ ഇപ്പോൾ ഈ സീക്വൻസിന്റെ ഔപചാരികമായ വിശദീകരണം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഗണിതശാസ്ത്രപരമായ വിശദീകരണം നൽകുന്നു അതിനാൽ ഓരോ 𝑥∈𝑎 𝑏 നും ഏത് 𝜖0 നും ചെറുതാണെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ 𝑁𝜖 𝑥 ആണ് അതിനാൽ ഈ നാച്ചുറൽ നമ്പർ 𝑁 നമ്മൾ എന്ത് ∈ തിരഞ്ഞെടുക്കുന്നു എന്ത് 𝑥 ശരിയാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതായത് 𝑓𝑛𝑥 𝑓 𝑥 എന്നിവ തമ്മിലുള്ള ഈ വ്യത്യാസം വളരെ ചെറുതാക്കാൻ കഴിയും കാരണം എല്ലാത്തിനും നമ്മൾ തിരഞ്ഞെടുത്തത് 𝑛≥𝑁𝜖 𝑥 ആണ് അതിനാൽ ഓരോ 𝑥𝜖 എന്നിവയ്ക്കും ഒരു നാച്ചുറൽ നമ്പർ 𝑁 ഈ ബന്ധം ഓരോ n≥N നും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പോയിന്റ് വൈസ് കോൺവെർജൻസ് എന്ന് നമ്മൾ വിളിക്കുന്നു നമ്മൾ സംസാരിക്കുന്നത് യൂണിഫോം കോൺവെർജൻസിനെ കുറിച്ചാണ് മാത്രമല്ല രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കാരണം ഇവിടെ ഓരോ 𝑥 𝜖 എന്നിവയ്ക്കും ഒരു നാച്ചുറൽ നമ്പർ 𝑁 മാത്രമേ ഉള്ളൂ അത് xനെ അല്ലെങ്കിൽ നെ ആശ്രയിച്ചിരിക്കും അല്ലെങ്കിൽ അടിസ്ഥാനപരമായി രണ്ടിനേയും ആശ്രയിച്ചിരിക്കും അതായത് fnx fx എല്ലാ 𝑛≥𝑁𝜖 𝑥 നും ഇപ്പോൾ ഈ യൂണിഫോം കോൺവെർജൻസിൽ ഈ ∃ ഒരു നാച്ചുറൽ നമ്പർ 𝑁 x ൽ നിന്ന് സ്വതന്ത്രമാണെങ്കിൽ 𝑁 എന്നത് 𝜖 നെ മാത്രം ആശ്രയിച്ചിരിക്കും അപ്പോൾ ഇവിടെ ഈ സീക്വൻസ് f ലേക്ക് യൂണിഫോംല്യ കോൺവെർജ് ചെയ്യുമെന്ന് നമ്മൾ പറയുന്നു ഓരോ 𝜖 നും ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടെങ്കിൽ 𝜖 നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇവിടെ 𝑁 എന്നത് 𝜖 𝑥 എന്നിവയെ ആശ്രയിച്ചായിരുന്നു ഇവിടെ 𝑁 എന്നത് 𝜖 നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു fnx fx≤∈ എല്ലാം 𝑛≥𝑁𝜖 ∀ 𝑥 ∈ 𝑎 𝑏 ആണ് അതിനാൽ ഇവിടെ ഈ വ്യത്യാസം വളരെ ചെറിയ ∀n≥N∈ നിർമ്മിക്കും കൂടാതെ N ഇത് 𝑥 നെ ആശ്രയിക്കുന്നില്ല ഇത് നിലനിർത്തണം അതേസമയം പോയിന്റ് വൈസ് കോൺവെർജന്സിന്റെ കാര്യത്തിൽ ഓരോ 𝑥 𝜖 എന്നിവയ്ക്കും ∀ 𝑛 ≥ 𝑁 ഉണ്ടെങ്കിൽ ഈ വ്യത്യാസം 𝜖 ൽ കുറവായി സജ്ജമാക്കാൻ കഴിയുമെന്ന് നമ്മൾ പറയുന്നു എന്നാൽ ഇവിടെ രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ യൂണിഫോം കോൺവെർജന്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരേയൊരു വ്യത്യാസം ∃ ഒരു നാച്ചുറൽ നമ്പർ 𝑁 എന്നതിനെ മാത്രം ആശ്രയിക്കുന്നു എന്നതാണ് ഇത് ഒരു യൂണിഫോം കോൺവെർജൻസ് ആണെന്ന് നമ്മൾ വിളിക്കുന്നു ശരി രണ്ട് തരം കോൺവെർജൻസുകളെ വേർതിരിച്ചറിയാൻ ഈ രണ്ട് ആശയങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതിന് നമ്മൾ ചില ഉദാഹരണങ്ങൾ എടുക്കും അതിനാൽ ഒരു സീക്വൻസ് unxn 𝑥 ∈ 01 എന്നിവ പരിഗണിക്കുക അതിനാൽ ഇവിടെ എന്താണ് രസകരമായത് നിങ്ങൾ 0 1 എന്നിവയിൽ നിന്ന് x എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 ഉൾപ്പെടുത്താൻ പോകുന്നില്ല അതിനാൽ അത് 1 ൽ നിന്ന് ഓപ്പൺ ചെയ്തിരിക്കും അതിനാൽ നമ്മൾ ഏതെങ്കിലും നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ x എന്ന് ശരിയാക്കുകയും തുടർന്ന് xn എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ∞ എന്നതിനടുത്തുള്ള പരിധി എടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് തീർച്ചയായും 0 ലേക്ക് പോകുന്നു കാരണം 0 നും 1 നും ഇടയിൽ അഥവാ 0≤x1 ഇടയിൽ x ഉണ്ട് അങ്ങനെ അതിനെയാണ് നമ്മൾ പോയിന്റ് വൈസ് കൺവെർജൻസ് എന്ന് വിളിക്കുന്നത് അതിനാൽ ഓരോ 𝑥∈01 നും നമുക് n ലേക്ക് അടുക്കുമ്പോൾ un0ലേക്ക് n പോകുന്നുവെന്ന വ്യവസ്ഥയുണ്ട് എന്നാൽ ഇത് 0 ആയി യൂണിഫോംലി കോൺവെർജ് ചെയ്യുന്നില്ല ഇതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇവിടെ പോയിന്റ് വൈസ് കൺവെർജൻസ് മാത്രമേയുള്ളൂ നമ്മൾക്ക് യൂണിഫോംലി കൺവെർജൻസ് ഇല്ല സ്വാഭാവികമായും യൂണിഫോം കോൺവെർജന്സിന്റെ നിർവചനത്തിൽ നിന്ന് യൂണിഫോം കോൺവെർജൻസ് അർത്ഥമാക്കുന്നത് പോയിന്റ് വൈസ് കൺവെർജൻസ് ആണെന്നും പോയിന്റ് വൈസ് കൺവെർജൻസ് എന്നത് മീൻ സ്ക്വയർ സെൻസിൽ കോൺവെർജൻസ് ആണെന്നും വ്യക്തമാണ് അതിനാൽ ഇവിടെ ഇത് യൂണിഫോംലി കോൺവെർജ് ചെയ്യുന്നില്ലെന്നു നമ്മൾ കാണിക്കും ഇത് പോയിന്റായി മാത്രം കോൺവെർജ് ചെയ്യുന്നു അതിനാൽ 𝜖 അതിനായി ∄ എന്നതിന് ഒരു നാച്ചുറൽ നമ്പർN 𝑥 എന്നതിൽ നിന്ന് സ്വതന്ത്രമായ ആയ ഒരു നമ്പർ ആണ് എന്ന് നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഇവിടെ ഇത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു കാരണം ഈ നാച്ചുറൽ നമ്പർ 𝑁 x നെ ആശ്രയിക്കുന്നുവെങ്കിൽ നമുക്ക് പോയിന്റ് വൈസ് കൺവെർജൻസ് മാത്രമേയുള്ളൂ അതിനാൽ ∃ ഒരു നാച്ചുറൽ നമ്പർ 𝑁 𝑥ൽ നിന്ന് സ്വതന്ത്രമാണെങ്കിൽ un𝑥 പരിമിതപ്പെടുത്തുന്ന മൂല്യം 0 എന്നിവ തമ്മിലുള്ള വ്യത്യാസം 𝜖 നേക്കാൾ കുറവാണ് നമുക്ക് യൂണിഫോം കോൺവെർജൻസ് ഉണ്ട് പക്ഷേ ഇവിടെ 𝑁 നിലനിൽക്കുന്നില്ല എന്നാണ് നമ്മൾ കാണിക്കേണ്ടതെങ്കിൽ ഈ പ്രത്യേക കേസിൽ 𝑥 𝜖 രണ്ടിനെയും എപ്പോഴും ആശ്രയിക്കേണ്ടതുണ്ട് അതിനാൽ 𝜖 0 എന്നതിന് നമുക്ക് തെളിയിക്കേണ്ടത് |𝑢𝑛 0|𝜖 ആണ് നമ്മൾ ഒരു നാച്ചുറൽ നമ്പർ 𝑁 മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ 𝜖 ഈ വ്യത്യാസം 𝜖 ൽ കുറവായി സജ്ജമാക്കാൻ കഴിയും 𝜖 എന്നത് ഏതെങ്കിലും ആർബിറ്റേററി നമ്പർ ആണ് ഇതിന് ∀ 𝑛N ഉണ്ടായിരിക്കണം അതിനാൽ ഇത് ശരിയാണെന്ന് ശ്രദ്ധിക്കുക അതായത് |un 0|𝜖un ആണ് എവിടെയാണ് xn|xn 0|𝜖 എന്നത് xn 𝜖 ന് തുല്യമാണ് ഇതാണ് ഇവിടെ നമുക്ക് വേണ്ടത് ഇപ്പോൾ 𝑛 𝑁ന് ഇത് സാധ്യമാണോ എന്ന് നമ്മൾ നോക്കുന്നു അതിനാൽ 𝑛 𝑁 ഇത് ശരിയാണ് അതിനാൽ ഇവിടെ ഈ റിലേഷനിൽ നിന്ന് തന്നെ n x ഈ സംഖ്യയേക്കാൾ വലുതായിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കുന്നു അപ്പോൾ ഈ റിലേഷൻ ശരിയാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പർ N എന്നത് x എന്നതിന് പുറത്ത് ∀ 𝑛 ≥ 𝑁 ഈ ബന്ധം ലഭിക്കുമോ എന്നതാണ് ചോദ്യം അതിനാൽ ഇവിടെയുള്ള ചോദ്യം ഇവിടെ ഈ പദപ്രയോഗത്തിൽ നിന്ന് നമുക്ക് 𝑥 നെ ആശ്രയിക്കാത്ത ഒരു നാച്ചുറൽ നമ്പർ 𝑁 കണ്ടെത്താൻ കഴിയുമോ ഇവിടെ നിന്ന് വ്യക്തമായി കാണാം lnx 0 ലേക്ക് പോകുന്നത് പോലെ 𝑥 1 ലേക്ക് പോകുന്നു കാരണം 𝑥∈01 ആണ് അതിനാൽ x 1 ലേക്ക് അടുക്കുമ്പോൾ ln x 0 ലേക്ക് പോകുന്നു ഇത് വളരെ വലുത് ആണ് ഇത് ഒരു പരിധിയില്ലാത്ത സംഖ്യയാണ് 𝜖 നായി നമ്മൾ ln യെ സമീപിക്കുന്നു പക്ഷേ ln 𝑥 കാരണം 𝑥 ∈ 01 നമുക്ക് ഈ അളവ് x ഉം ആയി ബന്ധിപ്പിക്കാൻ കഴിയില്ല അതിനാൽ അടിസ്ഥാനപരമായി നമുക്ക് അത്തരം 𝑁 കണ്ടെത്താൻ കഴിയില്ല അതിനാൽ ഈ ബന്ധം നിലനിൽക്കും എന്നിരുന്നാലും നമ്മൾ 𝑁 വെറും x ആയി സജ്ജമാക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഈ ബ്രാക്കറ്റ് ഫങ്ക്ഷൻ അർത്ഥമാക്കുന്നത് ഇന്റിജെറിനെ ലേക്ക് റൌണ്ട് ചെയ്യുക എന്നാണ് അപ്പോൾ നമുക്ക് ഈ നാച്ചുറൽ നമ്പർ ഈ പദപ്രയോഗത്തിൽ നിന്ന് വരുന്നതാണ് തുടർന്ന് ഈ നാച്ചുറൽ നമ്പർ ലഭിക്കുന്നതിന് ഈ മൂല്യം ∞ ലേക്ക് റൌണ്ട് ചെയ്തു അതിനാൽ നമുക്ക് അത്തരം 𝑁 തിരഞ്ഞെടുക്കാം പക്ഷേ പ്രശ്നം ഇതാണ് ഈ 𝑁 𝜖 നെ ആശ്രയിച്ചിരിക്കുന്നു ഒരിക്കൽ നമ്മൾ 𝑥 കൊടുത്താൽ നമുക്ക് 0 മുതൽ 1 വരെ ഏത് സംഖ്യയും എടുക്കാം അപ്പോൾ നമുക്ക് അത്തരം 𝑁 ലഭിക്കും തുടർന്ന് ഈ റിലേഷൻ നിലനിൽക്കും കാരണം ∀𝑛𝑁 ആണ് ഇത് 𝑛N ന് ഉള്ളതാണ് അതിനാൽ ഈ നൽകിയ x നേക്കാൾ വലുതാണ് 𝑁 അതിനാൽ 𝑁 𝜖 𝑥 എന്നതിനേക്കാൾ വലുതായ ഏതെങ്കിലും n നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ റിലേഷൻ അവിടെയുണ്ട് |𝑢𝑛 0|𝜖 എന്നാൽ ഈ കേസിൽ ഈ 𝜖 എന്നത് 𝜖 𝑥 രണ്ടിനെയും ആശ്രയിച്ചിരിക്കുന്നു ഇത് ഗണിതശാസ്ത്രപരമായ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു പോയിന്റ് വൈസ് കൺവെർജൻസ് ആണെന്ന് വീണ്ടും സ്ഥിരീകരിക്കുന്നു കാരണം ഇത് N ൽ നിന്ന് സ്വതന്ത്രമായി x ഉപയോഗിച്ച് നമുക്ക് ഇത് 𝜖 ക്കാൾ കുറയ്ക്കാനാകില്ല ഇവിടെയുള്ള ഈ അളവ് x കാരണം ഇത് എല്ലായ്പ്പോഴും x നെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ അളവ് 0 ലും 1 ലും 𝑥 ന് കൂടുകയും പരിമിതികളില്ലാതെ ആകുകയും ചെയ്യുന്നു അതിനാൽ 𝜖 മാത്രം ആശ്രയിക്കുന്ന ഈ 𝑁 കണ്ടെത്തുന്നത് സാധ്യമല്ല അതിനാൽ സീക്വൻസ് 0 ലേക്ക് ഏകീകൃതമായി കൺവെർജ് ചെയ്യില്ല അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം കൂടി വേഗത്തിൽ നോക്കാം ഉദാഹരണത്തിന് നമ്മൾ 𝑢𝑛 xnn പരിഗണിക്കുകയാണെങ്കിൽ ഈ കേസിൽ ഈ സീക്വൻസ് 0 ആയി യൂണിഫോംലി കോൺവെർജ് ചെയ്യുന്നു ഇതാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് അതിനാൽ തീർച്ചയായും പോയിന്റ് വൈസ് കൺവെർജൻസും ഉണ്ട് കാരണം നമുക്ക് യൂണിഫോം കോൺവെർജ്സ് ലഭിച്ചുകഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പോയിന്റ് വൈസ് ആകുന്നു അതിനാൽ ഇവിടെ ഈ xnn1n നമ്മൾ വീണ്ടും പരിഗണിക്കണം അതാണ് നമുക്ക് 𝑥 𝜖 എന്നിവയില്ലാത്ത നിന്ന് സൌജന്യമായി ഒരു 𝑁 ലഭിക്കാനുള്ള പ്രധാന കാര്യം അതിനാൽ ഈ 𝑥 0 നും 1 നും ഇടയിൽ സ്ഥിതിചെയ്യുന്നതിനാൽ xnn1n നെ ഇവിടെ നമുക്ക് ബന്ധിപ്പിക്കാനാകും തുടർന്ന് നമുക്ക് ഇത് ഇവിടെ 𝜖 ൽ കുറവായി സജ്ജമാക്കാം അതിനാൽ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ 𝑁 നിർമ്മിക്കാൻ കഴിയും കാരണം ഇവിടെ ഈ 1n∈ ആണെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് xnn∈ ഉണ്ട് അതിനാൽ ഈ കേസിൽ നൽകിയതിന് നമുക്ക് എന്താണുള്ളത് നമ്മൾ ഈ N എടുക്കുകയാണെങ്കിൽ അത് 1 ന് ചുറ്റും ∞ എന്നതിന് തുല്യമാണ് അപ്പോൾ വ്യത്യാസം ∈∀n≥N എന്നതിനേക്കാൾ കുറവാണെന്ന് നമ്മൾ കണ്ടെത്തി അതിനാൽ നമുക്ക് ഇത് എളുപ്പത്തിൽ വീണ്ടും കാണാൻ കഴിയും അതിനാൽ നമുക്ക് un 01nഉണ്ട് അവിടെunxnn ആയിരിക്കും അതിനാൽ xnn കൂടാതെ ഈ 1n ഈ റിലേഷനിൽ നിന്ന് തന്നെ 𝜖 എന്നതിനേക്കാൾ കുറവാണ് അതിനാൽ ∀n കാരണം ഈ 𝑁 ഈ N നേക്കാൾ വലുതാണ് 1∈ നമ്മൾ ഇവിടെ 𝑛 𝑁 തിരഞ്ഞെടുത്താൽനമ്മൾ തീർച്ചയായും ഈ 1 എന്നതിനേക്കാൾ നിഷ്ഫലമായി പോകുന്നു കാരണം ഈ റിലേഷൻ ഇവിടെ 1n∈ആണ് ഇവിടെ ഈ 𝑛𝑁 നെ നമ്മൾ N മാറ്റി പകരം എന്തെങ്കിലും വലിയതാക്കുകയാണെങ്കിൽ ഇത് 1 എന്നതിനേക്കാൾ തീർച്ചയായും ആ റിലേഷൻ നിലനിൽക്കും അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് യൂണിഫോം കോൺവെർജൻസ് ഉണ്ട് കാരണം ഇത് 𝑁 ൽ നിന്ന് സ്വതന്ത്രമായ x കണ്ടെത്താൻ നമ്മൾക്ക് കഴിയും ഇത് N നെ മാത്രം ആശ്രയിച്ചിരിക്കും അതിനാൽ ഈ കേസിൽസീക്വൻസ് യൂണിഫോംലി കോൺവെർജ് ചെയ്യും അതിനാൽ നമ്മൾ ചർച്ച ചെയ്ത മൂന്ന് ആശയങ്ങളിൽ യൂണിഫോം കൺവെർജസ് യൂണിഫോം കൺവെർജൻസ് ആണ് കൺവെർജൻസിന്റെ ശക്തമായ പതിപ്പ് അതിനാൽ യൂണിഫോം കൺവെർജൻസ് ഈ പോയിന്റ് വൈസ് കൺവെർജൻസിനെ സൂചിപ്പിക്കുന്നു ഈ പോയിന്റ് വൈസ് കൺവെർജൻസ് സൂചിപ്പിക്കുന്നത് മീൻ സ്ക്വയർ സെൻസിൽ അല്ലെങ്കിൽ ഇന്റഗ്രൽ സെൻസിൽ ഉള്ള കൺവെർജൻസ് ആണ് ശരി അതിനാൽ ഈ വ്യത്യസ്തമായ കോൺവെർജൻസിന്റെ ആശയങ്ങൾ എങ്ങനെയാണ് ഫൊറിയർ സീരീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഫൊറിയർ സീരീസുമായുള്ള അവയുടെ ബന്ധം എന്നിവ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും അതിനാൽ ഇപ്പോൾ ഈ നല്ല ഫലം നമുക്കുണ്ട് 𝑓 ഒരു പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഫോറിയർ സീരീസ് 𝑓 ന്റെ മീൻ സ്ക്വയർ സെൻസിൽ 𝑓 കോൺവെർജ് ചെയ്യുന്നു ഒരു പീസ്വേസ് കണ്ടിന്യൂറ്റി മാത്രം ആവശ്യമുള്ള ഒരു ഫലമാണിത് ഈ വീകെർ ഫോമിൽ ഉള്ള കോൺവെർജൻസിനു നമുക്ക് അധിക വ്യവസ്ഥകൾ ഇല്ല അതായത് മീൻ സ്ക്വയർ കോൺവെർജൻസ് അതിനാൽ വെറും പീസ്വേസ് കണ്ടിന്യൂറ്റി അല്ലാതെ മറ്റൊരു വ്യവസ്ഥയും നമുക്ക് ആവശ്യമില്ല അതിനാൽ ഫൊറിയർ സീരീസ് എഴുതുന്നതിന് ഇത് മതിയായ വ്യവസ്ഥയാണ് ഇത് തീർച്ചയായും മീൻ സ്ക്വയർ സെൻസിൽ കോൺവെർജ് ചെയ്യും ഔപചാരിക തെളിവുകളില്ലാതെ ഫൊറിയർ കോഎഫിഷ്യന്റുകൾ ക്രമീകരിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഫംഗ്ഷൻ 𝑓 ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ 𝑓 നെ cos 𝑛𝑥 അല്ലെങ്കിൽ sin 𝑛𝑥 കൊണ്ട് ഗുണിച്ചുകൊണ്ടോ വരുന്ന ഫൊറിയർ സീരീസിന്റെ നിർമ്മാണം നോക്കുന്നതിൽ നിന്നും നിസ്സാരമാണ് തുടർന്ന് വീണ്ടും ഇക്വയറ്റ് ചെയ്യുന്നു അതിനാൽ ഫൊറിയർ സീരീസിന്റെ മുഴുവൻ നിർമ്മാണവും ഇന്റഗ്രൽസിനെ ഇക്വയറ്റ് ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിന്റെ ഫലമായി ഈ കൺവെർജൻസ് എല്ലായ്പ്പോഴും മീൻ സ്ക്വയർ സെൻസിൽ ലഭിക്കുന്നു ഇത് ഇന്റെഗ്രേലിന്റെ അർത്ഥത്തിൽ മാത്രമാണ് അതിനാൽ ഇവിടെ കുറച്ചുകൂടി കണ്ടെത്താൻ ഈ അർത്ഥവത്തായ മീൻ സ്ക്വയറിൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് 𝑓𝑥 ന്റെ സ്ക്വയറിന്റെ വ്യത്യാസവും അളവും 0 ലേക്ക് പോകുന്നു ഇത് ഒരു സീക്വൻസ് ആണ് ഈ സീക്വൻസിന്റെ തുക ഇവിടെയുണ്ട് മാത്രമല്ല ഈ ഇന്റഗ്രലിൽ 𝑛 ∞ യിലേക്ക് പോകുന്നതിനാൽ ഇത് 0 ആകും മീൻ സ്ക്വയർ സെൻസിൽ കോൺവെർജൻസ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് എല്ലായ്പ്പോഴും അങ്ങനെയാണ് നമുക്ക് വേണ്ടത് പീസ്വേസ് കണ്ടിന്യൂറ്റി മാത്രമാണ് കൂടാതെ ഫൊറിയർ സീരീസ് എഴുതുന്നതിന് ഇത് മതിയാകും തുടർന്ന് ഈ അർത്ഥത്തിൽ f ന് അധിക വ്യവസ്ഥകൾ നൽകാതെ നമ്മൾ എല്ലായ്പ്പോഴും മാറ്റിനിർത്തും അപ്പോൾ നമുക്ക് രണ്ടാമത്തേത് തീർച്ചയായും ഡിറിച്ലെറ്റ് സിദ്ധാന്തം ആണ് അത് പീസ്വേസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഉചിതമായ വൺ സൈഡഡ് ഡെറിവേറ്റീവുകൾ നിലവിലുണ്ടെങ്കിൽ ഉചിതമായ മാർഗ്ഗങ്ങൾക്ക് മുമ്പ് ഇടത് വലത് ഡെറിവേറ്റീവുകൾ മുതലായവയെക്കുറിച്ച് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ആ ഡെറിവേറ്റീവുകളാണെങ്കിൽ ഒന്ന് ഈ ഇന്റെർവല്ലിലെ ഓരോ ഘട്ടത്തിലും 𝑓 ന്റെ വൺ സൈഡഡ് ഡെറിവേറ്റീവുകൾ നിലവിലുണ്ട് അതിനാൽ ഇവിടെ ലളിതമായി നമ്മൾ −𝜋 𝜋 എടുക്കുന്നു പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും −𝐿 𝐿 ൽ നിന്ന് കോമൺ ഇന്റെർവൽ എടുക്കാം അതിനാൽ ഉചിതമായ വൺ സൈഡഡ് ഡെറിവേറ്റീവുകൾ ഉണ്ടെങ്കിൽ ഓരോ ഇന്റെർവൽലും ഈ ഇന്റെർവൽ ഫോറിയർ സീരീസ് പോയിന്റ് വൈസ് കൺവെർജന്റ് ആണ് അതിനാൽ ഈ ഇന്റെർവല്ലിലെ ഓരോ 𝑥 നും ഫൊറിയർ സീരീസ് ലിമിറ്റുകളുടെ ശരാശരി മൂല്യത്തിലേക്ക് പോയിന്റ് വൈസ് കോൺവെർജ് ചെയ്യും അതിനാൽ ഇത് കൃത്യമായി നമ്മൾ ചർച്ച ചെയ്ത ഡിറിച്ലെറ്റ് സിദ്ധാന്തം ആയിരുന്നു അവിടെ നമ്മൾക്ക് യഥാർത്ഥത്തിൽ പോയിന്റ് വൈസ് കോൺവെർജൻസ് ഉണ്ട് കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോ 𝑥 ഓരോ നിശ്ചിത x ഫൊറിയർ സീരീസ് ഈ മൂല്യത്തിലേക്ക് കോൺവെർജ് ചെയ്യുന്നു എന്നാണ് 𝑓 കണ്ടിന്യൂസ് ആയപ്പോൾ കോൺവെർജന്സിന്റെ ശക്തമായ പതിപ്പാണിത് അതിനാൽ കോൺവെർജന്സിന്റെ സ്ട്രോങ്സ്റ് വേർഷൻ ലഭിക്കാൻ സ്വാഭാവികമായും നമ്മൾ കൂടുതൽ വ്യവസ്ഥകൾ f ന് ഏർപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ ഈ മൂന്നിൽ ഏറ്റവും വീകെസ്ററ് മീൻ സ്ക്വയർ ആണ് അവിടെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഒരു വ്യവസ്ഥയും ചുമത്തിയില്ല ആ വീകെസ്ററ് കണ്ടിഷൻ ആ പോയിന്റ് വൈസ് കോൺവെർജൻസ് മാത്രം മതി എന്നാൽ നമ്മൾ പോയിന്റ് വൈവിധ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇവിടെ വൺ സൈഡഡ് ഡെറിവേറ്റീവിന്റെ നിലനിൽപ്പ് പറയണം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് യൂണിഫോം കോൺവെർജൻസിനെകുറിച്ചാണ് അതിനാൽ നമ്മൾ കുറച്ചുകൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതായത് 𝑓 കണ്ടിന്യൂസ് ആകണം കൂടാതെ 𝑓′ ഈ ഇന്റെർവല്ലിൽ പീസ്വേസ് കണ്ടിന്യൂസ് ആകണം അപ്പോൾ f എന്ന ഫൊറിയർ സീരീസ് യൂണിഫോംലി തികച്ചും കൂടിച്ചേരുന്നു അതിനാൽ ഈ സീക്വൻസിലെ ഓരോ പദത്തിന്റെയും സമ്പൂർണ്ണ മൂല്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും കോൺവെർജ് ചെയ്യുന്നു അതിനാൽ f കണ്ടിന്യൂസ് ആയിരിക്കണം 𝑓′ പീസ്വേസ് കണ്ടിന്യൂസ് ആകണം എന്ന കോൺവെർജൻസിനെകുറിച്ച് ശക്തമായ ധാരണ ഇവിടെയുണ്ട് അതിനാൽ കോൺവെർജൻസിന്റെ മൂന്ന് ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആദ്യത്തേത് മീൻ സ്ക്വയർ സെൻസിൽ വീക്ക് ആണ് അവിടെ ഫോറിയർ സീരീസ് എഴുതാൻ പര്യാപ്തമായ പീസ്വൈസ് കണ്ടിന്യൂറ്റി മറ്റൊരു വ്യവസ്ഥയും നമുക്ക് ആവശ്യമില്ല രണ്ടാമത്തെ ആശയം പോയിന്റ് വൈസ് കോൺവെർജൻസ് ആണ് കൂടാതെ നമുക്ക് ഡിറിച്ലെറ്റ് സിദ്ധാന്തം ഉണ്ട് അത് പറയുന്നത് f ഒരു പീസ്വേസ് കണ്ടിന്യൂസ് ആണ് മാത്രമല്ല വൺ സൈഡഡ് ഡെറിവേറ്റീവുകൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ കേസിൽ നമുക്ക് ഈ പോയിന്റ് വൈസ് കോൺവെർജൻസ് ഉണ്ട് കൂടാതെ മൂന്നാമത്തെ കേസിൽ നമ്മൾ ഇപ്പോൾ കൂടുതൽ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് f കണ്ടിന്യൂസും f′ പീസ്വേസ് കണ്ടിന്യൂസും ആയിരിക്കുകയാണെങ്കിൽ ആ കേസിൽ നമുക്ക് യൂണിഫോം കോൺവെർജൻസ് ഉണ്ട് ഇത് f നേക്കാൾ ശക്തമായ കോൺവെർജൻസ് ആണ് അതിനാൽ ഈ കണക്ഷനിൽ നമുക്ക് ഒരു നല്ല ഫലം കൂടി ഉണ്ട് അതിനാൽ മികച്ച ട്രിഗണോമെട്രിക് പോളിനോമിയലിന്റെ ഏകദേശരൂപത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും നമുക്ക് ഇതിനകം തന്നെ ട്രിഗണോമെട്രിക് പോളിനോമിയൽ ട്രിഗണോമെട്രിക് സീരീസ് എന്നിവ പരിചിതമാണ് അതിനാൽ ഇവിടെ വളരെ നല്ല റിസൾട്ട് 𝑓 പിഎസ്വൈസ് കോണ്ടിൻസ് ചെയ്യുകയാണെങ്കിൽ അനുവദിക്കുക ചെയ്യും അതിനാൽ ഇവിടെ വളരെ നല്ല ഫലമാണ് 𝑓 പീസ്വേസ് കണ്ടിന്യൂസ് ആയിരിക്കുകയും മീൻ സ്ക്വയർ എറർ അനുവദിക്കുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ ഇവിടെ ചില തരത്തിലുള്ള എറർ നിർവ്വചിക്കുന്നു 𝐸 ഇനിപ്പറയുന്ന ഫങ്ക്ഷന്റെ മീൻ സ്ക്വയർ എറർ ആണ് E എന്നത് ഈ 𝑓𝑥നും ഒരു ട്രിഗണോമെട്രിക് പോളിനോമിയലിനും ഇടയിലുള്ള മീൻ സ്ക്വയർ എറർ ആണ് ചിലത് c02പിന്നെ ck dk ചില കോഎഫിഷ്യന്റ് cos 𝑘𝑥 sin 𝑘𝑥 എന്നിവ 𝑘 1 മുതൽ N വരെ പോകുന്നു പിന്നെ ഇത് തീർച്ചയായും N ആണ് അതിനാൽ ഈ എറർ നമ്മൾ നിർവചിച്ചത് ഇതാണ് ഈ f 𝑥 ഉം ഈ പോളിനോമിയലും തമ്മിലുള്ള വ്യത്യാസം ഈ സ്ക്വയറും ഈ ഇന്റെഗ്രേലും ആണ് അതിനാൽ ഇപ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് ഉണ്ട് ഈ ലെക്ചറിൽ നമ്മൾ തെളിയിക്കുന്നില്ലെങ്കിലും ഇത് ഇവിടെ തെളിയിക്കാനാകും എന്നാൽ 𝐸 ൽ ഒരാൾക്ക് ഈ ഫലം തെളിയിക്കാൻ കഴിയും നമ്മൾ ഈ a0a1a2 bn എന്നിവ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതായത് ഇവിടെ നമ്മൾ cd എന്നിവയ്ക്ക് a b കൊടുത്തു ഈ a b എന്നിവ ഫൊറിയർ കോഎഫിഷ്യന്റ് ആണെങ്കിൽ അതിനർത്ഥം ഫൊറിയർ സീരീസിൽ നിന്ന് വരുന്ന പോളിനോമിയൽ നമുക്ക് കൃത്യമായി ലഭിക്കും ഈ കോഫിഫിഷ്യന്റുകൾക്കായി ഞങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ എറർ മറ്റേതെങ്കിലും യഥാർത്ഥ സംഖ്യയേക്കാൾ കുറവോ തുല്യമോ ആയിരിക്കും ഈ തെറ്റിൽ നമുക്ക് കൃത്യമായി ഫൊറിയർ കോഎഫിഷ്യന്റുകൾ ഉള്ളത് ഏറ്റവും കുറഞ്ഞ ഒന്നായിരിക്കും ഇവിടെയുള്ള ഏതൊരു റിയൽ നമ്പറിനും ഇതും ഇതും കൂടാതെ നമുക്ക് akഉം bk ഉം ആണ് ഫൊറിയർ കോഫിഫിഷ്യന്റുകൾ അതിനാൽ വീണ്ടും നമുക്ക് ഈ ഫലം എന്താണ് നമുക്ക് c0ckdk കൃത്യമായി ഫൊറിയർ കോഫിഫിഷ്യന്റുകൾ ഉള്ളപ്പോൾ അത്തരമൊരു മീൻ സ്ക്വയർ എറർ വളരെ കുറവാണ് അതിനാൽ ആ പോളിനോമിയൽ അല്ലെങ്കിൽ ചുരുക്കിയ ഫോറിയർ സീരീസ് ഫംഗ്ഷന് മികച്ച ഏകദേശരൂപം നൽകും ഇവിടെ മറ്റ് ചില സംഖ്യകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് ഒരു മികച്ച ഏകദേശരൂപം ലഭിക്കില്ല നമ്മൾ ഫോറിയർ കോഫിഫിഷ്യന്റുകൾ തിരഞ്ഞെടുക്കണം അപ്പോൾ ഈ മീൻ സ്ക്വയർ എറർ മാത്രമാണ് ഏറ്റവും കുറഞ്ഞത് അതിനാൽ പോളിനോമിയലിന്റെ ഈ കോഎഫിഷ്യന്റുകളെ ഫോറിയർ കോഫിഫിഷ്യന്റുകളായി തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് മികച്ച ട്രിഗണോമെട്രിക് പോളിനോമിയൽ ലഭിക്കും അതിനാൽ നമ്മൾ ഇവ ഫൊറിയർ കോഎഫിഷ്യന്റുകളായി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം തെറ്റ് ഏറ്റവും കുറവാണ് അങ്ങനെയാണെങ്കിൽ മറ്റ് ചില കോഎഫിഷ്യന്റുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് കുറഞ്ഞ തെറ്റ് ഉണ്ടാകില്ല ഇപ്പോൾ ഈ തെറ്റ് ലഭിക്കാനോ ഈ തെറ്റ് കുറയ്ക്കാനോ നമ്മൾ ഫൊറിയർ കോഎഫിഷ്യന്റ് തിരഞ്ഞെടുക്കണം അതിനാൽ ഫൊറിയർ പോളിനോമിയൽ അല്ലെങ്കിൽ ചുരുക്കിയ ഫോറിയർ സീരീസ് എന്ന് വിളിക്കപ്പെടുന്ന ഫംഗ്ഷൻ f𝑥 നമുക്ക് ഏകദേശമായി കണക്കാക്കാം ഈ അർത്ഥത്തിൽ ഇത് ഒരു നല്ല റിസൾട്ട് ആണ് കൂടാതെ ഈ കോഎഫിഷ്യന്റുകളെ ഫൊറിയർ കോഎഫിഷ്യന്റുകളായി തിരഞ്ഞെടുക്കുന്നതിലൂടെ ഈ മീൻ സ്ക്വയർ അർത്ഥത്തിലുള്ള തെറ്റ് കുറവായിരിക്കും ശരി ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നോക്കാം ഈ ഫംഗ്ഷൻ f𝑥 ഈ −𝜋 x എന്നിവയാൽ വിശദീകരിക്കാം തുടർന്ന് എല്ലാ പോയിന്റുകൾക്കുമുള്ള ഫൊറിയർ സീരീസിന്റെ തുക നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനർത്ഥം നമ്മൾ ഡിറിച്ലെറ്റ് സിദ്ധാന്തം പ്രയോഗിക്കും ഈ ഫംഗ്ഷനുള്ള ഫൊറിയർ സീരീസിന്റെ ആകെ തുക എന്താണെന്ന് നമ്മൾ കാണും അതിനാൽ നമ്മൾ ഫോറിയർ സീരീസ് വിലയിരുത്തേണ്ടതില്ല കാരണം കോൺവെർജൻസ് റിസൾട്ട് നമുക്ക് ഇതിനകം അറിയാം അതിനാൽ 𝑥 0 ൽ അതും ഇവിടെ ഡിസ്കൌണ്ടിന്യൂറ്റി ഒരു പോയിന്റ് ആയതിനാൽ ഫൊറിയർ സീരീസ് ഈ ശരാശരി മൂല്യം f0f0 2 ആയി പരിമിതപ്പെടുത്തും അപ്പോൾ ഇവിടെ എന്താണ് f f00 𝑓 0− എന്നിവ അവിടെ നിന്ന് വരുന്നതാണ് −𝜋 അതിനാൽ നമുക്ക് 0 π2 2 ഉണ്ട് ഫൊറിയർ സീരീസിന്റെ മൂല്യം 𝑥 0 ആണ് 𝜋 π എന്നിവയിൽ മറ്റൊരു ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ഉണ്ട് ഇവയാണ് ഇന്റെർവെല്ലിന്റെ അവസാന പോയിന്റുകൾ ഈ പോയിന്റുകളിലെ സീരീസിന്റെ മൂല്യവും ഈ വശത്ത് നിന്ന് ശരാശരി മൂല്യം 𝑓 𝜋− ലേക്കും ആ വശത്ത് നിന്ന് 𝑓 −𝜋 ലേക്കും കൺവെർജ് ചെയ്യും അതിനാൽ ഇത് π π2 ആകും അതിനാൽ ഇത് 0 ലേക്ക് കൺവെർജ് ചെയ്യും മറ്റെല്ലാ പോയിന്റുകളിലും സീരീസ് ഫംഗ്ഷണൽ മൂല്യത്തിലേക്ക് കൺവെർജ് ചെയ്യും കാരണം ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് ആയിരിക്കും ശരി അതിനാൽ ഈ ഫംഗ്ഷൻ x2x ന്റെ ഈ ഫൊറിയർ സീരീസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അവസാന ഉദാഹരണം ഇവിടെ −𝜋𝑥𝜋 ആണ് ഫൊറിയർ സീരീസ് ഇതിനകം ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഇന്റെർവെല്ലിലെ interval0 എല്ലാ പോയിന്റുകൾക്കുമായി ഫൊറിയർ സീരീസിന്റെ തുക കണ്ടെത്താനും തുടർന്ന് കോൺവെർജന്സിന്റെ ഫലം പ്രയോഗിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു ഈ സീരിസിന്റെ തുക കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിനാൽ അത് രസകരമാണ് അതിനാൽ ഇന്റെർവെല്ലിലെ എല്ലാ പോയിന്റുകളിലുമുള്ള ഫൊറിയർ സീരീസിന്റെ ആകെത്തുക കണ്ടെത്താൻ നമുക്ക് ഡിറിച്ലെറ്റ് സിദ്ധാന്തം പ്രയോഗിക്കാം അപ്പോൾ എളുപ്പത്തിൽ കണ്ടെത്താനാകും അതിനാൽ കണ്ടിന്യൂറ്റി പോയിന്റിൽ ഇത് ഫങ്ഷണൽ മൂല്യത്തിന് തുല്യമായിരിക്കുമെന്നും നമുക്ക് എവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ അവിടെ നമ്മൾ രണ്ട് പരിധികളുടെ ശരാശരി മൂല്യം എടുക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ ഇവിടെ ഈ സീരിസിനെകുറിച്ച് നമ്മൾ x 𝜋 𝑥 0 എന്നിവ ചെയ്യുക ആണെങ്കിൽ ഈ സീരീസ് ഫൊറിയർ സീരിസിൽ നിന്ന് നേരിട്ട് നമുക്ക് ലഭിക്കും അതിനാൽ നമ്മൾ 𝑥π കൊടുത്താൽ ആദ്യം നമ്മൾ 𝜋 അല്ലെങ്കിൽ π ഫൊറിയർ സീരീസിന്റെ ഏത് മൂല്യത്തിലേക്കാണ് കോൺവെർജ് ചെയുന്നത് എന്ന് കാണണം അതിനാൽ ഈ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റിൽ കാരണം ഇവിടെ നമുക്ക് വീണ്ടും ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് ഒരു വശത്ത് നമുക്ക് π2 ഉണ്ട് മറുവശത്ത് നമുക്ക് π2 ഉണ്ട് അതിനാൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് അതിനാൽ ഈ സീരീസ് ഈ 2π2 π22 ശരാശരി മൂല്യത്തിലേക്ക് കോൺവെർജ് ചെയ്യുന്നു അതായത് ഈ 2 ലേക്ക് അതിനാൽ 𝑥 ± ൽ സീരീസ് 2 ആയി കോൺവെർജ് ചെയ്യുന്നുവെന്ന് നമുക്കറിയാം തുടർന്ന് നമ്മൾ സീരീസിലെ അതേ പോയിന്റ് മാറ്റിസ്ഥാപിക്കും അത് 2 ന് തുല്യമായിരിക്കും അതിനാൽ നമുക്ക് ഈ സീരീസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ലഭിക്കുന്നത് അർത്ഥമാക്കുന്നത് തുക 2 ആണ് തുടർന്ന് ഇവിടെ നമ്മൾ 𝑥± ഇടും അതിനാൽ സൈൻ കാരണം ഇത് 0 ആകും ഇവിടെ cos 𝑛𝜋 അല്ലെങ്കിൽ π π എന്നത് പ്രശ്നമല്ല അതിനാൽ അത് 1nനൽകുന്നു തുടർന്ന് 1nഇതിനകം അവിടെയുണ്ട് അതിനാൽ ഇത് 12n ആയിത്തീരുന്നു നിങ്ങൾ ഇവിടെയാണ് ഇതിൽ നിന്ന് പുറത്തുകടക്കുമ്പോൾ നമ്മുടെ സീരിസിന്റെ ആകെത്തുക 1n226 എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ആ മൂല്യം 26 ചോദ്യത്തിൽ ചോദിച്ച സീരിസിൽ ഒന്നാണ് മറ്റൊന്ന് നമ്മൾ 𝑥0 കൊടുത്താൽ ഈ ആവശ്യമുള്ള സീരിസിൽ നമുക്ക് ലഭിച്ചിരുന്ന സീരിസ് നമുക്ക് ലഭിക്കും അതിനാൽ ഇത് വീണ്ടും 0 ലേക്ക് പോകും ഇവിടെ ഇത് cos 01 ആയി മാറും തുടർന്ന് നമുക്ക് അവിടെ കോൺവെർജിൻസ് കാണണം അതിനാൽ ഇത് 0 ലേക്ക് കോൺവെർജ് ചെയ്യും അതിനാൽ ഇവിടെ നമുക്ക് 23 സീരീസ് ഉണ്ട് നമ്മൾ ഇവിടെ 𝑥0 എന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാം 0 ആക്കി മാറ്റിയെഴുതണം അവിടെ ഈ സീരീസ് ലഭിക്കും അത് ചോദ്യത്തിൽ ചോദിച്ച സീരീസ് ആണ് അതിനാൽ ഇവിടെ നമുക്ക് സീരിസിന്റെ തുക 212 എന്ന് ലഭിക്കും അതിനാൽ ഈ കോൺവെർജൻസ് തിയറിയിലൂടെ സീരിസിന്റെ വാല്യൂ നിരവധി സീരീസുകളുടെ തുക എന്നിവ നമുക്ക് കണ്ടെത്താനാകും അതിനാൽ ലെക്ചർ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് തുടർന്ന് ഇന്ന് നമ്മൾ കോൺവെർജൻസിന്റെ വ്യത്യസ്ത ആശയങ്ങൾ ചർച്ച ചെയ്തു ഒന്നാമത്തേത് f പീസ്വേസ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഫോറിയർ സീരീസ് മീൻ സ്ക്വയറിലേക്ക് കോൺവെർജ് ചെയ്യും കൂടാതെ പീസ്വേസ് കണ്ടിന്യൂസും വൺ സൈഡഡ് ഡെറിവേറ്റീവുകളും നിലനിൽക്കുകയാണെങ്കിൽ ഇത് ഡ്രിച്ലെറ്റ് സിദ്ധാന്തം ആണ് കൂടാതെ ഇതിന്റെ ഫോറിയർ സീരീസ് ശരാശരി മൂല്യത്തിലേക്ക് കോൺവെർജ് ചെയ്യും കൂടാതെ f ഇന്റെർവെലിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ പിന്നെ f പീസ്വേസ് കണ്ടിന്യൂസ് ആയിരിക്കും ഈ ഇന്റെർവെൽ −𝜋 𝜋 ൽ ഫോറിയർ സീരീസ് യൂണിഫോംലി കോൺവെർജ് ചെയ്യുന്നു അതിനാൽ ഈ ലെക്ചറിൽ കൺവെർജെൻസ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു